ഈ പാഠത്തിൽ നമ്മൾ മറ്റൊരു ഉദാഹരണ സർക്യൂട്ട് ആണ് നോക്കുന്നത് അത് ഒരു ഓപ് ആമ്പ് ഉപയോഗിച്ച് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് സമന്വയിപ്പിക്കുന്നതിനായി ഉള്ളതാണ് അതിനെ മില്ലർ ഇഫക്റ്റ് ഉപയോഗിച്ച് ഉള്ള നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് ഞാൻ പറയും അത് എന്താണെന്ന് ഞാൻ വിശദീകരിക്കും ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫൈർ നമുക്ക് പരിഗണിക്കാം ഇൻപുട്ട് Vi ആണെങ്കിൽ ഈ റെസിസ്റ്റൻസ് അനുപാതം കാരണം ഔട്ട്പുട്ട് kVi ആയിരിക്കും ഇത് 1മുകളിലെ റെസിസ്റ്റൻസ് താഴത്തെ റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ തീർച്ചയായും ഈ അവസ്ഥയിൽ ഓപ് ആമ്പിലേക്ക് കറണ്ട് ഒഴുകുന്നില്ല അതിനാൽ ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് അനന്തമാണ് ഞാൻ വോൾട്ടേജ് ഉറവിടം വ്യക്തമായി കാണിക്കട്ടെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഇടയിൽ ഞാൻ ഒരു റെസിസ്റ്റൻസ് Rx ബന്ധിപ്പിക്കുന്നു തുടർന്ന് ഈ സർക്യൂട്ടിന്റെ ഈ ഭാഗത്തിന്റെ റെസിസ്റ്റൻസ് ഞാൻ വിലയിരുത്തും അതായത് ഈ വരയുടെ വലതുവശത്ത് ഈ ടെർമിനലുകൾ ക്കും ഗ്രൌണ്ടിനും ഇടയിലുള്ളത് കൂടാതെ ഏത് ലീനിയർ സർക്യൂട്ടിന്റെയും റെസിസ്റ്റൻസ് എങ്ങനെ വിലയിരുത്താമെന്ന് നമുക്കറിയാം നമ്മൾ ഒരു ടെസ്റ്റ് വോൾട്ടേജ് കൊടുത്ത് പ്രവഹിക്കുന്ന കറണ്ട് കണ്ടുപിടിച്ച് വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് ഹരിച്ച് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു ഇപ്പോൾ ഇവിടെ ഒരേയൊരു കറണ്ട് Rx ലൂടെ പ്രവഹിക്കുന്നു ഈ നോഡ് Vi ലും ഈ നോഡ് kVi ലും ആണ് ഉള്ളത് അതിനാൽ Ix എന്ന ഈ കറണ്ട് Rx ആണ് അത് Vi×Rx ആണ് ഇപ്പോൾ ഈ Ix യഥാർത്ഥത്തിൽ നെഗറ്റീവ് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം ഈ k ഒന്നിനേക്കാൾ വലുതായിരിക്കും k ഒന്നിൽ കൂടുതലാണെന്ന് നമ്മൾ അനുമാനിക്കും കാരണം നമ്മൾ ഗെയിൻ k ഉള്ള ഒരു ആംപ്ലിഫയർ ആണ് നിർമ്മിക്കുന്നത് k എന്നത് കുറഞ്ഞത് 1 എങ്കിലും ആയിരിക്കും ഈ സാഹചര്യത്തിൽ നമ്മൾ k ഒന്നിൽ കൂടുതലായി തിരഞ്ഞെടുക്കും അതിനാൽ ഈ k 1 ഒരു പോസിറ്റീവ് സംഖ്യയാണ് അതിനാൽ ഈ ദിശയിലുള്ള ഈ Ix യഥാർത്ഥത്തിൽ നെഗറ്റീവ് ആയിരിക്കും ഈ ദിശയിലുള്ള Ix എന്ന കറണ്ട് Vi× Rx ആണ് അതായത് Vi Rx ആണ് അതിനാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള റെസിസ്റ്റൻസ് Ri മറ്റൊന്നുമല്ല Rx ആണ് ഈ k 1 ഒരു പോസിറ്റീവ് സംഖ്യയാണ് Rx തീർച്ചയായും പോസിറ്റീവ് ആണ് കാരണം ഇത് ഒരു പ്രത്യക്ഷമായ റെസിസ്റ്റർ ആണ് അതിനാൽ ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് നെഗറ്റീവ് ആണ് അതിനാൽ നിങ്ങൾ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് സമന്വയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇത് ഗെയിൻ k ഉള്ള ഒരു ആംപ്ലിഫയർ ആണ് ഞാൻ ഒരു Rx ബന്ധിപ്പിക്കുന്നു ഈ പോയിന്റിനും ഗ്രൌണ്ടിനും ഇടയിൽ ഞാൻ ഒരു റെസിസ്റ്റൻസ് കാണുന്നു അത് Rx ആണ് തീർച്ചയായും ഈ സർക്യൂട്ടിൽ k ഒന്നിനേക്കാൾ വലുതാണ് ഇപ്പോൾ ഇത് വളരെ ലളിതമാണ് ഇത് മില്ലർ ഇഫക്റ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നിങ്ങൾക്ക് ഗെയിൻ k ഉള്ള ഒരു ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ ഈ സർക്യൂട്ട് സൂചിപ്പിക്കുന്നതായി ഞാൻ ഈ ചിഹ്നം ഉപയോഗിക്കുന്നു ഗ്രൌണ്ട് റഫറൻസ് ടെർമിനലാണെന്നും ഇത് Vi ആണെന്നും ഇത് V0 kVi ആണെന്നും പറയാം ഇത് മറ്റൊന്നുമല്ല ഒരു വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടമാണ് അതിനാൽ ഇത് Vi ആണെങ്കിൽ ഇത് k×Vi ആയിരിക്കും ആംപ്ലിഫയറിൻറെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഇടയിൽ ഒരു റെസിസ്റ്റൻസ് Rx നിങ്ങൾ ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഇവിടേയ്ക്ക് കറണ്ട് ഒഴുകുന്നില്ലെന്ന് നമുക്ക് അനുമാനിക്കാം അത് ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെ ആണ് അതിനാൽ അവിടെ കറണ്ട് ഒഴുകുന്നില്ല അവിടെയ്ക്ക് ഒഴുകുന്ന കറണ്ടിൻറെ അളവ് ViRx ആയിരിക്കും കൃത്യമായി ഇതുതന്നെയാണ് മറ്റേ സർക്യൂട്ടിനായി ഞാൻ കണ്ടുപിടിച്ചത് നിങ്ങൾ ഇവിടെ Vi കൊടുക്കുകയാണെങ്കിൽ അവിടേയ്ക്ക് ഒഴുകുന്ന കറണ്ടിൻറെ അളവ് ViRx ആണ് ഇത് ലളിതമായ ഓംസ് നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നത് അതിനാൽ ഉള്ളിലേക്ക് നോക്കുമ്പോഴുള്ള റെസിസ്റ്റൻസ് ViIx ആണ് ഈ Ix ന് ഞാൻ മുമ്പത്തെ അതേ സൂത്രവാക്യം തന്നെ ഉപയോഗിക്കട്ടെ അത് Rx അഥവാ Rx ആണ് അതിനാൽ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഇടയിൽ ഒരു റെസിസ്റ്റൻസ് ബന്ധിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആംപ്ലിഫയറിന്റെ ഗെയിനിനെ ആശ്രയിക്കുന്ന ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് ലഭിക്കും ഇത് പൊതുവെ മില്ലർ ഇഫക്റ്റ് എന്നറിയപ്പെടുന്നു കൂടാതെ ഗെയിനിന്റെ മൂല്യത്തെ ആശ്രയിച്ച് കുറച്ച് സാധ്യതകളുണ്ട് k ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇൻപുട്ടിൽ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കാണുന്നു k പൂജ്യത്തിനും ഒന്നിനും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് സർക്യൂട്ടിലുള്ള റെസിസ്റ്ററിനേക്കാൾ അതായത് Rx നേക്കാൾ കൂടുതലുള്ള ഒരു പോസിറ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കാണുന്നു k പൂജ്യത്തിനേക്കാൾ ചെറുതാണെങ്കിൽ അതായത് k നെഗറ്റീവ് ആണെങ്കിൽ Rx നേക്കാൾ ചെറുതായ ഒരു പോസിറ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് ലഭിക്കുന്നു ഗെയിൻ നെഗറ്റീവ് ഉള്ള ഒരു ആംപ്ലിഫയറിനു കുറുകെ ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു വലിയ റെസിസ്റ്റൻസിനെ ഒരു ചെറിയ റെസിസ്റ്റൻസ് പോലെയാക്കാൻ കഴിയും അതിനാൽ ഇത് മില്ലർ ഇഫക്റ്റ് എന്നറിയപ്പെടുന്നു ഇത് ചില സർക്യൂട്ടുകളിൽ സ്വയം പ്രത്യക്ഷപ്പെടുന്നു ഇങ്ങനെയാണ് നിങ്ങൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് കണക്കാക്കുന്നത് പ്രധാന കാര്യം ഇതാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് നിർണ്ണയിക്കുന്നത് ആംപ്ലിഫയറിന്റെ ഗെയിൻ ആണ് അതിനാൽ നിങ്ങൾക്ക് നിരവധി സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാം അതായത് നിങ്ങൾക്ക് ഇലക്ട്രോണിക് ആയി മാറ്റാൻ സാധിക്കുന്ന ഗെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈദ്യുതപരമായി മാറ്റാൻ സാധിക്കുന്ന റെസിസ്റ്റൻസും ഉണ്ടായിരിക്കാം കൂടാതെ തീർച്ചയായും മറ്റ് ഉപയോഗങ്ങൾ ഇതൊക്കെയാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഇതിനകം കാണിച്ചുതന്നതാണ് കൂടാതെ വളരെ ചെറിയ റെസിസ്റ്റൻസും മറ്റും സാക്ഷാത്കരിക്കാനും ഇത് ഉപയോഗിക്കാം